എൻപിടിഇഎൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും കോഴ്സിലേക്ക് സ്വാഗതം വിശകലനം പഠിക്കുന്നതിനായി നമ്മൾ മുൻപ് ചെയ്തിരുന്ന പാറ്റേൺ തുടരുകയാണ് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത തരം പാറ്റേണുകൾ എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് പഠിക്കുന്നു ട്വിറ്ററിലെ ഉപയോക്തൃനാമം മാറുന്ന പെരുമാറ്റത്തിന്റെ ചലനാത്മകത എന്ന ഈ പേപ്പർ ഞാൻ നോക്കാൻ പോകുന്നു ഞാൻ മുമ്പ് ഈ വിഷയത്തിൽ ഹ്രസ്വമായി പരാമർശിച്ചതായി ഞാൻ കരുതുന്നു അതായത് ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ അവരുടെ ഉപയോക്തൃനാമങ്ങൾ എങ്ങനെ മാറ്റുന്നു എന്തുകൊണ്ടാണ് അവർ മാറ്റുന്നത് ഏത് തലത്തിലുള്ള ആവൃത്തി സംഭവിക്കുന്നു ആരാണ് ഇത് മാറ്റുന്നത് ആർക്കാണു ഉപയോക്തൃ ഹാൻഡിലുകൾ മാറ്റുന്നതിലൂടെയുള്ള നേട്ടങ്ങൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു രസകരമായ പ്രബന്ധമാണ് അതിൽ ചില രസകരമായ പ്രത്യാഘാതങ്ങളും ഉണ്ട് അതിനാൽ അമൂർത്തമായി ട്വിറ്റർ ഉപയോക്താക്കളുടെ ഗണ്യമായ വിഭാഗം കാലക്രമേണ അവരുടെ ഉപയോക്തൃനാമം മാറ്റുന്നുവെന്ന് കഴിഞ്ഞ പഠനങ്ങൾ കാണിക്കുന്നുവെന്ന് രചയിതാവ് പറയുന്നതായി തോന്നുന്നു രചയിതാക്കൾ യഥാർത്ഥത്തിൽ ട്വിറ്ററിലെ 8 7 ദശലക്ഷം ഉപയോക്താക്കളെ രണ്ട് മാസത്തേക്ക് നോക്കുന്നു വിവരശേഖരണം അൽപ്പം രസകരവും സങ്കീർണ്ണവുമാണ് പുരോഗമിക്കുമ്പോൾ ഞങ്ങൾ അത് നോക്കുന്നു അതിനാൽ ഒരു ഉപയോക്തൃനാമം ഒന്നിലധികം തവണ തിരഞ്ഞെടുക്കുന്നതിലൂടെ കുറച്ചുപേർ അനുകൂലിക്കുന്നു എന്നതാണ് പഠനത്തിലെ ഉയർന്ന തലത്തിലുള്ള നിഗമനം അതിനാൽ പേപ്പർ നിഗമനം ചെയ്യുന്നത് ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട് അവരുടെ ഹാൻഡിലുകൾ പലതവണ മാറ്റുകയും കുറച്ച് തവണ വലിയ ആളുകൾ അത് മാറ്റുകയും ചെയ്യുന്നു കൂടാതെ പേപ്പറും കാരണങ്ങൾ നോക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അമൂർത്തമായത് പേപ്പറിൽ ഉള്ളവയെ സംഗ്രഹിക്കുന്നു തുടർന്ന് ആമുഖത്തിൽ നിങ്ങൾ ട്വിറ്ററിന്റെ മുഴുവൻ വളർച്ചയെക്കുറിച്ചും സംസാരിക്കുന്നു എന്തുകൊണ്ട് ഉപയോക്താക്കൾ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ട്വിറ്ററിലേക്ക് തള്ളുന്നത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അങ്ങനെ നിഗമനത്തിൽ രചയിതാവിന്റെ ഒരു നിഗമനത്തിൽ രണ്ട് മാസത്തേക്ക് ട്രാക്കുചെയ്ത 8 7 ദശലക്ഷം ട്വിറ്റർ ഉപയോക്താക്കളുടെ ഡാറ്റാസെറ്റിലാണ് 73 21 ശതമാനം ഉപയോക്താക്കൾ അവരുടെ പ്രൊഫൈൽ ആട്രിബ്യൂട്ടുകൾ മാറ്റുകയും പുതിയ മൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നു ഏകദേശം 10 ശതമാനം ഉപയോക്താക്കൾ അവരുടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്നു മൊത്തത്തിൽ അതിനാൽ ഏകദേശം 73 ശതമാനം ഉപയോക്താക്കൾ അവരുടെ പ്രൊഫൈൽ ആട്രിബ്യൂട്ടുകൾ മാറ്റുകയും പുതിയ മൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നുവെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിച്ചുതരുന്നു അതിനാൽ x ആക്സിസ് വ്യത്യസ്ത ആട്രിബ്യൂട്ടുകളാണെന്നും y ആക്സിസ് മാറിയ ഉപയോക്താക്കളുടെ ശതമാനമാണെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാം കൂടാതെ ഇവിടെ വരുത്തിയ നിറം മാറ്റങ്ങൾ വരുത്തിയ വ്യത്യസ്ത തവണകളെക്കുറിച്ച് പരാമർശിക്കുന്നു രണ്ട് അർത്ഥം ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ മാറിയ മൂന്നിരട്ടി തുടർന്ന് മൂന്ന് തവണ നാല് മൂല്യങ്ങളും അഞ്ച് മൂല്യങ്ങളും മാറുന്നു 7 ദശലക്ഷം ഉപയോക്താക്കളിൽ 73 21 ശതമാനം ട്വിറ്ററിൽ അവരുടെ ആട്രിബ്യൂട്ടുകൾ മാറ്റുന്നു വെറും 10 ശതമാനം ഉപയോക്താക്കൾ അവരുടെ ഉപയോക്തൃനാമം മാറ്റുന്നു അതിനാൽ നമുക്ക് പേപ്പറിന്റെ സംഭാവനകൾ നോക്കാം അതിനാൽ പേപ്പറിൽ മൂന്ന് സംഭാവനകളുണ്ട് ഉപയോക്താക്കളിൽ 20 ശതമാനം ഉപയോക്തൃനാമത്തിൽ 85 ശതമാനം ട്രിഗർ ചെയ്യുന്നു വീണ്ടും ഇത് നമ്മൾ മുമ്പ് കണ്ട അതേ പാരെറ്റോ തത്വമാണ് അല്ലെങ്കിൽ 20 ശതമാനം ഉപയോക്താക്കളായ ഒരു പവർ ലോ പാറ്റേൺ 85 ശതമാനം ഉപയോക്തൃനാമ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു 5 തവണയോ അതിൽ കൂടുതലോ മാറ്റുന്നത് നിരീക്ഷിച്ചു ഉപയോക്തൃനാമം മാറ്റുന്ന സ്വഭാവം ഒരു പാരേറ്റോ തത്ത്വം പിന്തുടരുന്നു 10 ശതമാനം ഉപയോക്തൃനാമ മാറ്റം ഒരു ഉപയോക്തൃനാമം മാറ്റിയ ഒരു മണിക്കൂറിന് ശേഷം സംഭവിക്കുന്നു ഉപയോക്തൃനാമം മാറ്റുന്ന പാറ്റേണും രസകരമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ആളുകൾ ഇത് മാറ്റുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ആളുകൾ മാറുന്നു കാരണം അവർക്ക് കുറച്ച് ഇടം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ആരംഭിക്കുമ്പോൾ എന്റെ അക്കൌണ്ട് പൊന്നുരംഗം കുമാരഗുരു ആയിരുന്നുവെങ്കിൽ അത് വളരെ ദൈർഘ്യമേറിയതാണ് ഞാൻ അക്കൌണ്ട് പോങ്കുരു എന്ന് മാറ്റുകയാണെങ്കിൽ ഉപയോക്താക്കൾ എന്നെ ടാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിൽ എന്നെ പരാമർശിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലം ലഭിക്കും ഉള്ളടക്കം എഴുതാൻ ട്വിറ്ററിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതേസമയം ഫെയ്സ്ബുക്കിൽ ഉള്ളടക്കത്തിന് കൂടുതൽ ഇടമുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനാൽ നിങ്ങളുടെ ഉപയോക്തൃനാമം ഒരിക്കൽ മാത്രം മാറ്റാൻ ഫേസ്ബുക്ക് നിങ്ങളെ അനുവദിക്കുന്നു കഴിയുന്നത്ര തവണ മാറ്റാൻ ട്വിറ്റർ നിങ്ങളെ അനുവദിക്കുന്നു ഈ പ്രശ്നം യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം അതാണ് 65 ശതമാനം ഉപയോക്താക്കൾ പഴയ പേരിനോട് ബന്ധമില്ലാത്ത ഒരു പുതിയ ഉപയോക്തൃനാമം തിരഞ്ഞെടുക്കുന്നു അതേസമയം 35 ശതമാനം പേർ പഴയത് വീണ്ടും ഉപയോഗിച്ചു ഒരു കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒത്തുചേരുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ ഉള്ള ഒരു പട്ടിക നിങ്ങൾ പിന്നീട് കാണും അവർ യഥാർത്ഥത്തിൽ ഒരേ പേര് ഉപയോഗിക്കും വ്യത്യസ്ത ഉപയോക്താക്കൾ ഗ്രൂപ്പിനുള്ളിൽ ഒരേ ഹാൻഡിൽ ഉപയോഗിക്കാൻ തുടങ്ങും ഉപയോക്തൃനാമം മാറ്റാനുള്ള കാരണങ്ങളിൽ സ്പെയ്സ് ഗെയിൻ ട്രെൻഡിംഗ് ഇവന്റ് നേട്ടം അല്ലെങ്കിൽ നഷ്ടം അജ്ഞാതത്വം യഥാർത്ഥ ജീവിത സംഭവങ്ങളുമായി പൊരുത്തപ്പെടൽ മടുപ്പ് എന്നിവ ഒഴിവാക്കുക അവ എന്താണെന്ന് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയും തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പേപ്പറിൽ പോകുമ്പോൾ നമുക്ക് അവയെ വിശദമായി നോക്കാനാകും സ്ഥല ലാഭം ഞാൻ പൊന്നുരംഗം കുമാരഗുരുവിനെ പോങ്കുരുവാക്കി മാറ്റി ഒരു ട്രെൻഡിംഗ് ഇവന്റിന് അനുയോജ്യമാകുക ഐപിഎൽ ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവ നടക്കാനിരിക്കുന്ന ചില ഇവന്റുകൾ നോക്കാം അജ്ഞാതത്വം നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുക ഞാൻ പൊന്നുരംഗം കുമാരഗുരു എന്ന പോങ്കുരു അക്കൌണ്ടിൽ സൃഷ്ടിക്കുന്നു അത് ഒരുപക്ഷേ വളരെ തിരിച്ചറിയാൻ കഴിയും അതേസമയം എനിക്ക് ചെന്നൈയിൽ നിന്നുള്ള ഒരാളെക്കുറിച്ച് ഒരു അക്കൌണ്ട് ഉണ്ടെങ്കിൽ അജ്ഞാതത്വം വളരെ ഉയർന്നതാണ് യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളുമായി ക്രമീകരിക്കുക എന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറുകയാണ് അതിനാൽ ഞാൻ ഒരു ഗ്രാജ് വിദ്യാർത്ഥിയാണെന്ന് മുമ്പ് നമുക്ക് അനുമാനിക്കാം എനിക്ക് എന്റെ ഉപയോക്തൃ ഹാൻഡിൽ ഒരു ബിരുദധാരിയാകാം എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു പ്രൊഫസറായതിനാൽ എനിക്ക് എന്റെ ഉപയോക്തൃ ഹാൻഡിൽ പ്രൊഫസർ ഉപയോഗിക്കാൻ കഴിയും വിരസത ഒഴിവാക്കുക ഞാൻ വളരെക്കാലമായി പോങ്കുരു ഉപയോഗിക്കുന്നതിനാൽ ഇത് വിരസമാണ് ക്ഷുദ്രകരമായ ഉദ്ദേശ്യം ഉപയോക്തൃ അവ്യക്തമായ ഉപയോക്തൃനാമം പ്രമോഷൻ ആണ് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിക്കാൻ കഴിയും അതായത് ജനപ്രിയവും യഥാർത്ഥത്തിൽ ലഭിക്കുന്നതുമായ ഒരാളുമായി വളരെ സാമ്യമുള്ള എന്റെ ഉപയോക്തൃ ഹാൻഡിൽ മാറ്റുക എന്റെ ഹാൻഡിൽ പ്രൊമോട്ടുചെയ്തതും ഉപയോക്തൃനാമം സ്ക്വാറ്റിംഗും എനിക്ക് ഇപ്പോൾ അമിതാഭ് ബച്ചൻ എന്ന ഒരു അക്കൌണ്ടിനായി രജിസ്റ്റർ ചെയ്യാനാകും ഇപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു അക്കൌണ്ട് സൃഷ്ടിക്കാൻ താൽപ്പര്യപ്പെടുമ്പോഴെല്ലാം അവർ എനിക്കായി അക്കൌണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഈ ഉപയോക്തൃനാമം സ്ക്വാറ്റിംഗ് യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമങ്ങളുടെ കാര്യത്തിലും വളരെ ജനപ്രിയമായ ഒരു പ്രശ്നമാണ് കേന്ദ്രത്തിൽ നിലവിലുള്ള സർക്കാരിന് പിഎംഒ ഇന്ത്യയുടെ അക്കൌണ്ട് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രശ്നമുള്ള സംഭവം ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നു അതിനാൽ പൊങ്കുരു പോലുള്ള ആ ഹാൻഡിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു പ്രശ്നമാണ് പൊതുവായ മേഖലകളിലും ഇത് ഒരു പരമ്പരാഗത പ്രശ്നമാണ് ആർക്കെങ്കിലും pmoindia in അല്ലെങ്കിൽ pmoindia com അല്ലെങ്കിൽ apple com എന്ന ഒരു URL സ്ക്വാറ്റ് ചെയ്യാൻ കഴിയും അവർക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പണം നൽകാം അവർക്ക് ഡൊമെയ്ൻ ആവശ്യമുള്ളപ്പോൾ ഹൌസിംഗ് ഡോട്ട് കോമിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നതായി ഞാൻ കരുതുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഡാറ്റ സെറ്റ് ശേഖരം നോക്കാം അതിനാൽ ബന്ധപ്പെട്ട ജോലിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പേപ്പർ പരിശോധിക്കുന്ന ഈ മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ മൂന്ന് വ്യത്യസ്ത തരം ഡൊമെയ്നുകളെക്കുറിച്ച് പരാമർശമുണ്ട് ഇത് ഉപയോക്തൃ പെരുമാറ്റവും ഉപയോക്താക്കൾ ഓൺലൈനിൽ അവരുടെ പെരുമാറ്റവും എങ്ങനെയാണ് മാറ്റുന്നത് രണ്ടാമത്തേത് പ്രൊഫൈൽ ലിങ്കിംഗ് ആണ് യഥാർത്ഥത്തിൽ ഉപയോക്തൃ ഹാൻഡിലുകളുമായി ബന്ധിപ്പിക്കുന്നതിനും അതേ ഐഡന്റിഫയർ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും മുമ്പ് ഞങ്ങൾ ഈ കോഴ്സിൽ കണ്ടിട്ടുണ്ട് ഈ മൂന്ന് വ്യത്യസ്ത തരം ഡൊമെയ്നുകളും യഥാർത്ഥത്തിൽ ഈ ഗവേഷണ പ്രവർത്തനത്തിലേക്ക് വരുന്നു അതിനാൽ രചയിതാക്കൾ യഥാർത്ഥത്തിൽ ഈ അനുബന്ധ ജോലികളെക്കുറിച്ച് പരാമർശിക്കുന്നു വിവരശേഖരണം യഥാർത്ഥത്തിൽ ശേഖരിച്ച മൊത്തം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ രചയിതാക്കൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ഡാറ്റ സെറ്റ് സൃഷ്ടിച്ചു ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും രണ്ട് മാസം സെറ്റ് ട്രാക്കുചെയ്യുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ തവണ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്ന ഉപയോക്താക്കളെ കണ്ടെത്തി ഈ ഉപയോക്താക്കളെ ഫിൽട്ടർ ചെയ്യുകയും ട്രാക്കുചെയ്യുകയും ചെയ്തു ഓരോ 15 മിനിറ്റിലും അവരുടെ പ്രൊഫൈലുകൾ അടിസ്ഥാനപരമായി മറ്റുള്ളവർ ചെയ്തത് അവർ വലിയ ഡാറ്റ സെറ്റ് എടുക്കുകയും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അത് ട്രാക്കുചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ചെറിയ ഡാറ്റ സെറ്റുകൾക്ക് ഈ വലിയ ഡാറ്റ സെറ്റിൽ നിന്നുള്ള ചെറിയ ഉപയോക്തൃ സെറ്റുകൾക്കായി ഓരോ പതിനഞ്ച് മിനിറ്റിലും അവർ അത് ട്രാക്കുചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ സമീപനം എന്ന് ഞങ്ങൾ പിന്നീട് വിശദീകരിക്കും രചയിതാക്കൾ ഈ സമീപനം സ്വീകരിച്ചു അതിനാൽ 2013 ഏപ്രിൽ 1 മുതൽ 2013 സെപ്റ്റംബർ 3 വരെയുള്ള കാലയളവിൽ 17 പ്രാദേശിക ആഗോള പരിപാടികളിൽ പങ്കെടുത്ത ഉപയോക്താക്കൾ ഞാൻ കരുതുന്നു അതിനാൽ പ്രധാനമായും ഉപയോക്താക്കളെ ശേഖരിക്കുന്നതിനുള്ള ചില വഴികൾ ഉണ്ടായിരിക്കേണ്ടതിനാൽ അവർ സ്വീകരിച്ച ഒരു സമീപനമാണ് 2013 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സംഭവങ്ങൾ ഈ ആഗോള സംഭവങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത എല്ലാ ആളുകളും കൈകാര്യം ചെയ്തവയാണ് അവ യഥാർത്ഥത്തിൽ ഡാറ്റയായിരുന്നു ഇതിനായി 8 7 ദശലക്ഷം ഉപയോക്താക്കളെ ശേഖരിച്ചു അത് ഉപയോക്താക്കൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് സീഡ് ട്രാക്കിംഗ് ഇപ്പോൾ മുതൽ 8 7 ഉപയോക്താക്കളാണ് സീഡ് ഉപയോക്താക്കൾ ഒക്ടോബർ 2013 നവംബർ 2013 കാലയളവിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ചോദിക്കുന്നതിലൂടെ ഏത് ഉപയോക്തൃനാമത്തിനും 8 7 ദശലക്ഷം ഉപയോക്താക്കൾ മാറുന്നു അതിനാൽ 8 7 ദശലക്ഷം ഉപയോക്താക്കൾ ഓരോ പതിനാല് ദിവസത്തിലും അവർ യഥാർത്ഥത്തിൽ അവരുടെ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു തുടർച്ചയായ രണ്ട് സ്കാനുകൾ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ഉപയോക്താവിന്റെ പഴയതും പുതിയതുമായ ഉപയോക്തൃനാമങ്ങൾ രേഖപ്പെടുത്തി അതായത് പതിനാല് ദിവസം മുമ്പ് എന്റെ അക്കൌണ്ട് പോങ്കുരു ആയിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ അക്കൌണ്ട് പൊന്നുരംഗം ഡോട്ട് കുമാരഗുരു ആണ് അവ രണ്ടും യഥാർത്ഥത്തിൽ പിടിച്ചെടുത്തു ട്വിറ്റർ ഉപയോക്തൃനാമങ്ങൾ കേസില്ലാത്തതാണ് അതിനാൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഏതെങ്കിലും കേസ് മാറ്റങ്ങൾ ഉപയോക്തൃനാമത്തിലെ മാറ്റങ്ങളായി കണക്കാക്കില്ല ഏകദേശം 10 ശതമാനം വരുന്ന 8 7 ദശലക്ഷം ഉപയോക്താക്കളുടെ 853827 ഉപയോക്താക്കൾ 2 മാസത്തെ ചെറിയ നിരീക്ഷണ കാലയളവിൽ ഒരു തവണയെങ്കിലും അവരുടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റിയതായി ഞങ്ങൾ കണ്ടെത്തി ഈ 2 മാസത്തിനുള്ളിൽ ഈ 8 7 ദശലക്ഷം ഉപയോക്താക്കളിൽ 10 ശതമാനം അവരുടെ ഉപയോക്തൃ ഹാൻഡിൽ മാറ്റി അത് വളരെ വലുതാണ് 10 ശതമാനം ഉപയോക്താക്കൾ അവരുടെ ഉപയോക്തൃ ഹാൻഡിലുകൾ മാറ്റുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് അതായത് എല്ലാ ഉപയോക്താക്കളെയും ശേഖരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതായത് പതിവ് ഡാറ്റ ശേഖരണത്തിനായി 8 7 ദശലക്ഷം ഉപയോക്താക്കൾ അതിനാൽ രചയിതാക്കൾ യഥാർത്ഥത്തിൽ സാമ്പിൾ ചെയ്യാൻ തീരുമാനിച്ചു അതിനാൽ അത്തരം പെരുമാറ്റത്തിൽ പങ്കെടുക്കാത്ത ഉപയോക്താക്കൾക്ക് ട്രാക്കിംഗിന് ചെറിയ മൂല്യമുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ പെരുമാറ്റം മാറ്റാത്ത ഉപയോക്താക്കളാണ് അതിനാൽ ഉപയോക്താക്കളെ ഫിൽട്ടർ ചെയ്തു 711609 ഉപയോക്താക്കൾ അവരുടെ ഉപയോക്തൃനാമങ്ങൾ ഒരു തവണയെങ്കിലും ക്രമരഹിതമായി മാറ്റി 10000 ഉപയോക്താക്കളെ ഒരു ചെറിയ ഇടവേളയിൽ നിരീക്ഷിക്കാൻ സാമ്പിൾ ചെയ്തു അവരുടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്ന ആളുകളെ കണ്ടെത്തുക അവിടെ നിന്ന് ഉപയോക്തൃനാമങ്ങൾ എടുത്ത് ഡാറ്റ ശേഖരിക്കുന്നതിന് ഒരു ചെറിയ സാമ്പിൾ സൃഷ്ടിക്കുക യഥാർത്ഥത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ വലിയ കാരണം യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഡാറ്റ സെറ്റ് ശേഖരിക്കാൻ രചയിതാക്കൾ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം അത് 10000 മാത്രമാണ് നിങ്ങൾക്ക് ട്വിറ്ററിലേക്ക് ഇത്രയധികം API കോളുകൾ ചെയ്യേണ്ടിവന്നാൽ അത് അസാധ്യമാണ് അതിനാൽ അവർ വിളിക്കുന്നത് അതാണ് നിങ്ങൾ നോക്കിയാൽ രചയിതാവ് ഇവിടെ പറയുന്നത് അതാണ് വേഗത്തിൽ സ്കാൻ ചെയ്യുന്നതിന് 1462 ആപ്ലിക്കേഷൻ പ്രാമാണീകരണ ടോക്കണുകൾ ആവശ്യമാണ് അതിനാൽ അത് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും രചയിതാക്കൾ ഉപയോഗിച്ച വ്യത്യസ്ത തരം സീഡുകൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടു 2013 ഒക്ടോബർ 16 മുതൽ നവംബർ 26 2013 വരെയുള്ള രണ്ടാഴ്ചത്തെ സ്കാൻ 8 ദശലക്ഷം ഉപയോക്താക്കൾ 2015 നവംബർ 22 മുതൽ ജനുവരി 22 വരെ 10000 ഉപയോക്താക്കളുടെ 15 മിനിറ്റ് സ്കാൻ അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പട്ടിക ഇതാ 10000 ഉപയോക്താക്കളിൽ 4198 ഉപയോക്താക്കൾ 14 മാസത്തിലൊരിക്കലെങ്കിലും ഉപയോക്തൃനാമങ്ങൾ മാറ്റി 14880 ഉപയോക്തൃനാമങ്ങൾ മാറ്റിക്കൊണ്ട് ഏകദേശം 20 ശതമാനം ഉപയോക്താക്കൾ 5 മിനിറ്റോ അതിൽ കൂടുതലോ മാറ്റം വരുത്തി ഏകദേശം 12648 85 ശതമാനം ഉപയോക്തൃനാമത്തിൽ മാറ്റം വരുത്തി അതിനാൽ ഞങ്ങൾ കണക്കുകളും കാണും അതിനാൽ ഒരു ഉപയോക്താവ് പതിനാല് മാസത്തിനുള്ളിൽ 113 തവണ തന്റെ ഉപയോക്തൃനാമം മാറ്റി അത് സ്വമേധയായുള്ള പരിശോധനയിൽ പകുതി പൂർത്തിയാക്കിയ ട്വീറ്റുകൾ ഒരേ വാചകമുള്ള ട്വീറ്റുകൾ ഹ്രസ്വകാല ഇടയ്ക്കിടെയുള്ള പോസ്റ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു അജൈവ ഉപയോക്താവായി മാറി അതിനാൽ ഇത് അടിസ്ഥാനപരമായി അല്ലെന്ന് പറയുന്നു നിർബന്ധമായും നിയമാനുസൃതമോ മനുഷ്യനോ ആയ ഉപയോക്താവ് അതിനാൽ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന നിഗമനം 10000 ഉപയോക്താക്കളുടേതാണ് 4198 ഉപയോക്താക്കൾ 14 മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഉപയോക്തൃനാമം മാറ്റി അതിനാൽ ഇവിടെ റഫറൻസ് ചിത്രം 3 ആണ് നമുക്ക് ചിത്രം 3 നോക്കാം അതിനാൽ ചിത്രം 3 ആണ് ഇത് യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്നതിന്റെ ആവൃത്തിക്കായി ഉപയോക്തൃ വിതരണം കാണിക്കുന്നു 20 ശതമാനം ഉപയോക്താക്കൾ അവരുടെ ഉപയോക്തൃനാമങ്ങളും 80 ശതമാനം ഉപയോക്താക്കളും ഇടയ്ക്കിടെ മാറ്റുന്നു അതിനാൽ ഞങ്ങൾ കണ്ട കഴിഞ്ഞ ആഴ്ചയിലെ പേപ്പർ പോലെ ഏകദേശം 10 അല്ലെങ്കിൽ 12 വരെയുള്ള ആദ്യ ഭാഗം യഥാർത്ഥത്തിൽ വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഉപയോക്താക്കളുടെ ഒരു ശതമാനമാണ് ഇത് അതിനാൽ അവിടെ സ്ഥിതിവിവരക്കണക്ക് യഥാർത്ഥത്തിൽ ഡാറ്റയുടെ കൂടുതൽ വിശദമായ കാഴ്ചയും ഉപയോക്തൃനാമ മാറ്റത്തിന്റെ ആവൃത്തിയും ഉപയോക്താക്കളുടെ എണ്ണവും നൽകുന്നു അതിനാൽ ഒരു ഉപയോക്താവ് മാറി ഒരു ഉപയോക്താവ് 14 മാസത്തിനുള്ളിൽ 113 തവണ മാറ്റി മുമ്പത്തെ ഉപയോക്തൃനാമം മാറ്റിയതിന്റെ ഒരു ദിവസത്തിനുള്ളിൽ ഏകദേശം 20 ശതമാനം ഉപയോക്തൃനാമ മാറ്റങ്ങൾ ട്രിഗർ ചെയ്തു 20 ശതമാനം ഉപയോക്താക്കളും ചെറിയ ഇടവേളകളിൽ ഇടയ്ക്കിടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റിക്കൊണ്ട് ഒരു പാരേറ്റോ വിതരണം നിരീക്ഷിക്കുക കൂടാതെ 80 ശതമാനം ഉപയോക്താക്കളും ദീർഘകാലത്തിനുശേഷം അപൂർവ്വമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇതാണ് ചിത്രം 2 എ ൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന വിതരണം നോക്കൂ അതിനാൽ ഒരു ഉപയോക്തൃനാമ മാറ്റത്തിനുള്ള ദിവസങ്ങളുടെ എണ്ണം കാണിക്കുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച ഇവിടെയുണ്ട് ഇത് 0 മുതൽ 600 വരെയാണ് അതേസമയം ഇത് 0 മുതൽ 1 വരെ കാണിക്കുന്നു ഉപയോക്തൃനാമത്തിന്റെ ആവൃത്തി ഇവിടെത്തന്നെ മാറുന്നു ഇത് ഉപയോക്തൃനാമത്തിലെ മാറ്റങ്ങളുടെ ശതമാനമാണ് അതിനാൽ എ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർന്നുള്ള ദൈർഘ്യം ഇവയെല്ലാം ഉപയോക്തൃനാമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാറ്റത്തിന്റെ സ്ഥാനം ഞങ്ങൾ കാണും അതിനാൽ ഇപ്പോൾ ഉപയോക്തൃനാമങ്ങൾ തന്നെ നോക്കുക ഉപയോക്തൃനാമങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പ്രത്യേകമായി ടാർഗെറ്റുചെയ്യുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജനപ്രീതിയും ആവൃത്തി മാറ്റവും കാണുന്നു ഫോളോവേഴ്സ് ഉപയോഗിച്ച് 4198 ഉപയോക്താക്കളുടെ ജനപ്രീതി ഞങ്ങൾ അളക്കുന്നു അതായത് ഡിഗ്രിയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ഉപയോക്തൃനാമം മാറ്റുന്നതിന്റെ ആവൃത്തിയ്ക്കെതിരെ ഇത് പ്ലേറ്റ് ചെയ്യുന്നു ഇത് എനിക്ക് പിന്തുടരുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ എന്റെ ഉപയോക്തൃനാമ മാറ്റങ്ങൾക്ക് വിരുദ്ധമാണ് വളരെ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ജനപ്രിയ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമങ്ങൾ കുറച്ചുകൂടി പിന്തുടരുന്നവരെ അപേക്ഷിച്ച് കൂടുതൽ തവണ പിന്തുടരുന്നുണ്ടോ എന്നത് പോലുള്ള രസകരമായ ഫലങ്ങളാണ് ഇത് രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താൻ രചയിതാക്കൾ അടിസ്ഥാനപരമായി ഒരു ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള എല്ലാവരെയും നീക്കംചെയ്തു കൂടാതെ ഇത് വളരെ കുറവാണ് കാരണം ഞങ്ങൾക്ക് ഇത് കുറവാണ് കാരണം ഈ തരത്തിലുള്ള ഉപയോക്താക്കളുള്ളതിനോ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഉപയോക്താക്കളോ ഉള്ളതിൽ അർത്ഥമില്ല അത് അടിസ്ഥാനപരമായി നമ്മൾ നോക്കുന്ന വിശകലനം വക്രീകരിക്കും ഉപയോക്തൃനാമ മാറ്റത്തിന്റെ ആവൃത്തി ദുർബലമായിട്ടും ഉപയോക്തൃനാമത്തിന്റെ അളവുമായി പോസിറ്റീവായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ഞങ്ങൾ നിരീക്ഷിക്കുന്നു ഇത് ഒരു പ്രധാന പോസിറ്റീവ് പരസ്പര ബന്ധമാണ് ഇത് ഉയർന്ന ജനപ്രീതി ഉയർന്ന മാറ്റത്തിന്റെ ആവൃത്തിയാണെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ദുർബലമായ പരസ്പര ബന്ധം ഉറപ്പ് നൽകുന്നില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് രചയിതാക്കൾ മാത്രമേ ദുർബലമായ പരസ്പരബന്ധം കണ്ടെത്തിയിട്ടുള്ളൂ അതിനാൽ ഡിഗ്രി ഫോളോവേഴ്സിന്റെ എണ്ണം യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമത്തിലെ മാറ്റങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ഫലപ്രദമാകണമെന്നില്ല ചിത്രം 4 എ അതിനാൽ നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇത് 1 മുതൽ 10 വരെയുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം 6 ന്റെ ശക്തി ഉപയോക്തൃനാമ മാറ്റങ്ങളുടെ ആവൃത്തി എന്നിവ കാണിക്കുന്നു അതിനാൽ ഇത് ഒരു യഥാർത്ഥ അർത്ഥമല്ല ഇത് ഒരു പോസിറ്റീവ് പരസ്പരബന്ധമായിരുന്നെങ്കിൽ ഇതുപോലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതായത് അനുയായികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഉപയോക്തൃനാമം മാറുന്നതിന്റെ ആദ്യ ശതമാനം വർദ്ധിക്കുമ്പോൾ അത് എ രേഖീയ ഗ്രാഫ് അതേസമയം ഈ ഗ്രാഫ് ഇത് ശരിക്കും പോസിറ്റീവ് ആയി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് കാണിച്ചുതരുന്നു ഉപയോക്തൃനാമ മാറ്റത്തിന്റെ ആവൃത്തിയ്ക്കെതിരെ ട്വീറ്റ് ചെയ്ത ശതമാനത്തിന്റെ മറ്റൊരു മെട്രിക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദുർബലമായ പരസ്പരബന്ധം സൂചിപ്പിക്കുന്നത് ജനപ്രീതിയും പ്രവർത്തനവും ഉപയോക്തൃനാമത്തിലെ മാറ്റത്തെ തിരഞ്ഞെടുക്കുന്നതിൽ ചെറിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് രണ്ടാമത്തെ ഗ്രാഫ് ഇവിടെയാണ് ചിത്രം 4 ബി ഉപയോക്താക്കളുടെ പ്രവർത്തനവുമായി ഉപയോക്തൃനാമം മാറുന്നതിന്റെ ആവൃത്തി കാണിക്കുന്നു രണ്ടിനുമിടയിൽ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിന് ഒരു ട്വീറ്റിനേക്കാൾ പതിനായിരത്തിലധികം ട്വീറ്റുകൾ വീണ്ടും ഞങ്ങൾ രണ്ടും തമ്മിൽ ദുർബലവും അനുകൂലവുമായ ഒരു ബന്ധം നിരീക്ഷിച്ചു അതിനാൽ അനുയായികളുടെ എണ്ണത്തിന് തുല്യമാണ് അതിനാൽ ഈ രണ്ടും തമ്മിൽ നമുക്ക് ദുർബലമായ പരസ്പര ബന്ധമുണ്ട് എണ്ണം ട്വീറ്റുകൾ പോസ്റ്റുചെയ്തതും ഉപയോക്തൃനാമത്തിന്റെ ആവൃത്തിയും അതിനാൽ അത് നിങ്ങൾക്ക് ഒരു ബോധം നൽകുന്നു അതിനാൽ നിങ്ങൾ ഇതുവരെ കണ്ട വിശകലനം മൊത്തത്തിൽ നോക്കാം അടിസ്ഥാനപരമായി പറയുന്നത് 20 ശതമാനം ഉപയോക്താക്കൾ അഞ്ച് തവണ മാറിയെന്നും 113 തവണ മാറിയ ആളുകളുണ്ടെന്നും ജനപ്രീതിയും പോസ്റ്റിന്റെ എണ്ണവും തമ്മിൽ ദുർബലമായ ബന്ധമുണ്ടെന്നും ഉപയോക്തൃനാമത്തിനായുള്ള പോസ്റ്റുകൾ അതാണ് ഞങ്ങൾ ഇതുവരെ പഠിച്ചത് അതിനാൽ പഠനത്തിനായി യഥാർത്ഥത്തിൽ ആളുകൾ പേര് മാറ്റുന്നതിനുള്ള കാരണങ്ങൾ പേപ്പറിന്റെ ആദ്യ രചയിതാവ് പരിധി യഥാർത്ഥത്തിൽ രസകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ അവരുടെ ഉപയോക്തൃനാമങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ചില ചോദ്യങ്ങളോടെ ഒരു സർവേ സൃഷ്ടിച്ചു യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമങ്ങൾ മാറ്റിയ ഉപയോക്താക്കളെ ടാഗ് ചെയ്തുകൊണ്ട് അവൾ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തു രസകരമെന്നു പറയട്ടെ ഞങ്ങൾക്ക് ചില നല്ല പ്രതികരണങ്ങളും വളരെ പ്രതികൂല പ്രതികരണങ്ങളും ലഭിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ യഥാർത്ഥത്തിൽ ട്രാക്കുചെയ്യുന്നത് നിങ്ങൾ ആരാണെന്നും ഞാൻ ചെയ്ത ഉപയോക്തൃനാമത്തിലെ മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു ചില ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ അവരുമായി പ്രതികരിച്ചു അവർ യഥാർത്ഥത്തിൽ അവരുടെ പേരുകളും ഉപയോക്തൃനാമങ്ങളും യഥാർത്ഥത്തിൽ വിശദീകരിച്ച കാര്യങ്ങളും മാറ്റാനുള്ള കാരണങ്ങൾ നൽകി അമൂർത്തത്തിൽ ഞങ്ങൾ പറഞ്ഞ ചില കാരണങ്ങൾ ഇതാ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമങ്ങൾ മാറ്റാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സ്ഥല ലാഭം തീർച്ചയായും പൊന്നുരംഗം കുമാരഗുരുവിനും പോങ്കുരുവിനും എതിരായി പോസ്റ്റുകളിൽ കൂടുതൽ വാചകം ലഭിക്കാൻ അവരെ സഹായിക്കും പേരുകൾ തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം നിങ്ങൾക്ക് കാണിക്കുന്ന ചിത്രം 5 നോക്കാം അതിനാൽ നിങ്ങൾ x axis നോക്കിയാൽ അത് അവരുടെ x അക്ഷത്തിൽ ഉള്ള ഒരു സ്പെയ്സ് നേട്ടം ആണ് y axis എന്നത് പഴയ യൂസർ നെയിം ദൈർഘ്യമാണ് അത് ഞാൻ പൊന്നുരംഗത്തിൽ നിന്ന് പൊന്നുരംഗം കുമാരഗുരുവിനും പോങ്കുരുവിനും പോങ്കുരുവിനും പോന്നുരങ്ങിലേക്കും മാറിയെങ്കിൽ അത് കണ്ടെത്താനാണ് കുമാരഗുരു എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപയോക്താക്കൾ അത് ചെയ്യുന്നത് അതിനാൽ രചയിതാക്കൾ ഉപയോക്താക്കളുടെ പുതിയതും പഴയതുമായ പേര് തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം കണക്കാക്കി കൂടാതെ പതിനൊന്നിലെ ശരാശരി ദൈർഘ്യത്തേക്കാൾ കുറവുള്ളതും പഴയതുമായ പേരുകളുടെ പ്രത്യേകമായി പ്രതിനിധീകരിക്കുന്ന ഉപയോക്താക്കളെ കാരണം ഉപയോക്തൃ ഹാൻഡിൽ വലുപ്പത്തിന്റെ ശരാശരി ദൈർഘ്യം 11 ആണെന്ന് ഡാറ്റ തന്നെ കാണിച്ചുവെന്ന് ഞാൻ കരുതുന്നു നീണ്ട ഉപയോക്തൃനാമങ്ങളിൽ 75 ശതമാനവും ഹ്രസ്വമായതോ പുതിയ ഉപയോക്തൃനാമങ്ങളുടെ അതേ നീളത്തിലേക്കോ നീങ്ങുന്നതായി രചയിതാക്കൾ നിരീക്ഷിച്ചു 75 ശതമാനം 75 19 ശതമാനം നീളമുള്ള ഉപയോക്തൃനാമങ്ങൾ ഹ്രസ്വമോ ഒരേ ദൈർഘ്യമുള്ളതോ ആയ ഉപയോക്തൃനാമങ്ങളിലേക്ക് നീങ്ങി 87 ശതമാനം ഹ്രസ്വ ഉപയോക്തൃനാമങ്ങൾ നീണ്ട പുതിയ ഉപയോക്തൃനാമങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അതേ തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ചെറുതും വലുതും വലുതും ചെറുതും ആയി മാറുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 11 ൽ താഴെയുള്ള പഴയ ഉപയോക്തൃനാമങ്ങളുള്ള മിക്ക ഉപയോക്താക്കളും അവരുടെ ഉപയോക്തൃനാമങ്ങളിൽ പ്രതീകങ്ങൾ ചേർക്കുന്നു 11 ൽ കൂടുതൽ പഴയ ഉപയോക്തൃനാമങ്ങളുള്ള മിക്ക ഉപയോക്താക്കളും അവരുടെ പുതിയ ഉപയോക്തൃനാമങ്ങളിൽ നിന്ന് പ്രതീകങ്ങൾ നീക്കംചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു പഴയ ഉപയോക്തൃനാമത്തിന്റെ നീളം 11 ൽ കൂടുതലാണ് അവയെല്ലാം ചുവപ്പായി കാണിക്കുന്നു അതിനാൽ അവയെല്ലാം നീങ്ങുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ എന്റെ ഉപയോക്തൃ ഹാൻഡിൽ വലുപ്പം കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സ്ഥലം ലഭിക്കുന്നു ഞാൻ അക്ഷരങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഇടം നഷ്ടപ്പെടുന്നു അതാണ് ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഇത് പഴയ ഉപയോക്തൃനാമങ്ങളിൽ നിന്ന് 11 ൽ താഴെയുള്ള പഴയ ഉപയോക്തൃനാമത്തിലേക്ക് നീങ്ങുന്നു ഇവിടെ നിങ്ങൾ 7 ൽ താഴെയുള്ള പഴയ ഉപയോക്തൃനാമം പ്രതീകങ്ങൾ ചേർക്കുന്നു അതിനാൽ അതാണ് ഇവിടെയുള്ളത് ഒരു സ്പെയ്സ് നേട്ടം ഇത് നെഗറ്റീവ് സ്പേസ് നേട്ടം പഴയ ഉപയോക്തൃനാമം പതിനൊന്ന് പ്രതീകങ്ങളിൽ കുറവ് അതിനാൽ ഈ നീല പഴയ ഉപയോക്തൃനാമം പതിനൊന്ന് പ്രതീകങ്ങളിൽ കുറവാണ് അതിനാൽ അവർക്ക് യഥാർത്ഥത്തിൽ സ്ഥല ലാഭം ലഭിക്കുന്നു അത് പോസിറ്റീവ് ആണ് പഴയ ഉപയോക്തൃനാമം പതിനൊന്നിനേക്കാൾ വലുതാണ് അവ കൂടുതൽ പ്രതീകങ്ങൾ ചേർക്കുന്നു അതിനാൽ അവർക്ക് ഇടം ലഭിക്കുന്നത് നെഗറ്റീവ് ആണ് അവർക്ക് സ്ഥലം നഷ്ടപ്പെടുന്നു ട്വിറ്ററിൽ ഏത് തരത്തിലുള്ള ഉപയോക്തൃനാമ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് മനസിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും രചയിതാക്കൾ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യുന്ന 10000 ഉപയോക്താക്കളുടെ കാര്യത്തിൽ ഒന്നിലധികം അക്കൌണ്ടുകൾ കുറച്ച് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് കുറച്ച് ഉപയോക്തൃനാമങ്ങൾ കൈമാറുക ഞാൻ മൂന്ന് അക്കൌണ്ടുകൾ പരിപാലിക്കുന്നു ഈ മൂന്ന് അക്കൌണ്ടുകൾക്കിടയിൽ ഞാൻ ഉപയോക്തൃനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഉപയോക്താക്കൾ ഡാറ്റ സെറ്റിലെ ചില ഉപയോക്താക്കൾ ഉപയോക്താക്കളെ വ്യക്തിപരമാക്കുന്നതിനോ അജ്ഞാതമാക്കുന്നതിനോ ഉപയോക്താക്കളുടെ തിരിച്ചറിയൽ ശേഷി മാറ്റുന്നതിനായി ഉപയോക്തൃനാമം മാറ്റുന്നു അതിനാൽ ഉദാഹരണത്തിന് എനിക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാവുന്ന ഒരു ഉപയോക്തൃനാമം പോങ്കുരു ഉണ്ടായിരിക്കാം ഞാൻ പോങ്കുരുവിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് പ്രൊഫസറിലേക്ക് മാറുകയും അത് അജ്ഞാതനാക്കുകയും ചെയ്യും ചെന്നൈയിൽ നിന്ന് പോങ്കുരുവിലേക്കുള്ള പ്രൊഫസറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൂടുതൽ തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഈ പട്ടിക നോക്കൂ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് പക്ഷേ ഇപ്പോൾ സെറ്റ് ചെയ്ത ഡാറ്റയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിശദീകരിക്കും അതിനാൽ ട്വിറ്ററിൽ ഉപയോക്താക്കൾക്കുള്ള അദ്വിതീയ ഐഡിയായ ഐഡിയുടെ ആദ്യ നിര നിങ്ങൾ നോക്കണം ഞങ്ങൾ x ഇട്ടു അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോക്താക്കളെ തിരിച്ചറിയാൻ കഴിയില്ല സ്കാൻ 1 പെഷവാർ അണ്ടർസ്കോർ എസ്എംഎസ് സ്കാൻ 2 പെഷവാർ അണ്ടർസ്കോർ വരി 2 ലെ അടുത്ത ഉപയോക്താവിന് പോയി സ്കാൻ 3 പെഷവാർ അണ്ടർസ്കോർ എസ്എംഎസ് ഉപയോക്താവിന് പോയി 3 അതിനാൽ അതേ സാജൻ ഗ്രൂപ്പാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ട്രാക്കുചെയ്യുന്നത് രചയിതാക്കൾ ഓരോ 15 മിനിറ്റിലും ട്രാക്കുചെയ്യുന്നു ഉപയോക്താവിന്റെ ഓരോ സ്കാനിംഗും ഒരേ ഗ്രൂപ്പിൽ നിന്നുള്ള വ്യത്യസ്ത സെറ്റ് ഉപയോക്താക്കളെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് കണ്ടെത്താനാകും ഈ ഹാൻഡിലുകളെല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഒരേ വ്യക്തിയായിരിക്കാം അത് അവിടെ ഒരു സാധ്യതയാണ് പക്ഷേ ഞങ്ങൾ കണ്ടെത്തിയത് ഇതാണ് ഒരു ഗ്രൂപ്പിനുള്ളിലെ ഉപയോക്തൃനാമങ്ങൾ പങ്കിട്ടു ആളുകൾ യഥാർത്ഥത്തിൽ വ്യത്യസ്ത അക്കൌണ്ടുകൾ ഉപയോഗിക്കുകയും ഒരേ ഉപയോക്തൃ ഹാൻഡിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനാൽ വ്യത്യസ്ത സ്നാപ്പ്ഷോട്ടുകളിൽ ഞങ്ങൾ ഡാറ്റ പിടിച്ചെടുത്തതായി കാണിക്കുന്ന അവസാന തീയതിയാണ് നിരീക്ഷണ തീയതി അതിനാൽ യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമം മാറ്റാനുള്ള കാരണങ്ങൾ നോക്കുക ഒരു ഉപയോക്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവന്റുകളുമായി ക്രമീകരിക്കുക ഉപയോക്താവ് യഥാർത്ഥത്തിൽ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവന്റ് അവസാനിച്ചു ഉപയോക്താവ് മറ്റൊരു ഇവന്റുമായി കണക്റ്റുചെയ്യാൻ തുടങ്ങി തുടർന്ന് അവർ കൈകാര്യം ചെയ്യുന്നു ഉദാഹരണത്തിന് pwi ഫാൻക്ലബ് ഫോഴ്സ് ഇന്ത്യയിലേക്ക് മാറ്റി അതിനാൽ ഇത് പട്ടിക രണ്ട് ഉപയോഗിച്ച് ഞാൻ ചെയ്ത വിശദീകരണമാണ് ഏതാനും ഉപയോക്താക്കൾ ഒരേ ഉപയോക്തൃനാമം വ്യത്യസ്ത സമയ സ്റ്റാമ്പുകളിൽ ഒരേ ഉപയോക്തൃനാമം തിരഞ്ഞെടുക്കുന്നതായി ഞാൻ കണ്ടെത്തിയ രചയിതാക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകം നിങ്ങൾ ഈ പട്ടിക കടന്നുപോയി അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ബോധം നൽകുന്നു ഹാൻഡിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു ഉപയോക്തൃനാമം സ്ക്വാറ്റിംഗ് ഉപയോക്തൃനാമം സ്ക്വാറ്റിംഗ് യഥാർത്ഥത്തിൽ ട്വിറ്റർ നിയമങ്ങൾക്ക് എതിരാണ് എന്നാൽ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ഉപയോക്തൃ ഹാൻഡിലുകൾ സൃഷ്ടിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആവശ്യമുള്ളപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ധനസമ്പാദനം നടത്താൻ കഴിയും മറ്റ് ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ഈ ഹാൻഡിലുകൾ ആഗ്രഹിക്കുമ്പോൾ അതിനാൽ അതോടെ പേപ്പർ അവസാനിപ്പിക്കുന്നു അതിനാൽ ഉപയോക്താക്കൾ എത്ര തവണ ഹാൻഡിലുകൾ മാറ്റുന്നു എന്തുകൊണ്ടാണ് അവർ ഹാൻഡിൽ മാറ്റുന്നത് ഏത് തരത്തിലുള്ള പാറ്റേണുകൾ നമ്പർ തമ്മിലുള്ള ബന്ധം ആരാണ് ഹാൻഡിൽ മാറ്റുന്നത് ജനങ്ങൾക്ക് എതിരായ ജനപ്രിയരായ ആളുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേപ്പറാണ് ഇത് ജനപ്രിയമല്ലാത്ത കുറച്ച് ടെക്സ്റ്റുകൾ പോസ്റ്റുചെയ്യുന്ന ആളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ധാരാളം വാചകങ്ങൾ പോസ്റ്റുചെയ്യുന്ന ആളുകൾ അതാണ് ഈ പേപ്പറിന്റെ വിശകലനം ഈ പേപ്പർ യഥാർത്ഥത്തിൽ ഉപയോക്തൃനാമ മാറ്റങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനും ചില നിഗമനങ്ങൾ നടത്തുന്നതിനും പോലും വളരെ ഉപയോഗപ്രദമാകും ഉപയോക്തൃനാമം മാറ്റുന്നതിനുള്ള ചില കാരണങ്ങൾ പറയുന്ന ഒരു പട്ടികയും ഇവിടെയുണ്ട് സ്വകാര്യത എന്റെ ആദ്യാക്ഷരങ്ങളും എന്റെ മുഴുവൻ പേരിന്റെ ഭാഗവും ആയതിനാൽ സ്വകാര്യതയ്ക്കായി അതിനാൽ ആളുകൾ ഉപയോക്തൃനാമങ്ങളുടെ സ്വകാര്യത ദുരുപയോഗം എന്നിവ മാറ്റുന്നതിനും എല്ലാ അക്കൌണ്ടുകളും ലിങ്കുചെയ്യുന്നതിനും യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നതിനും എളുപ്പമുള്ളതും ഹ്രസ്വമായ ഉപയോക്തൃനാമം ഉപയോഗിക്കുന്നതും വിക്കി നയം ലംഘിക്കുന്നതും വിക്കി നയം ലംഘിക്കുന്നതും എന്തുകൊണ്ടാണ് മതപരമായ കാരണങ്ങളാൽ വിക്കി നയം ലംഘിക്കുന്നു അതിനാൽ ഇവ ട്വിറ്ററിൽ നിന്നുള്ള ഉപയോക്തൃ ഹാൻഡിലുകളിൽ നിന്നല്ല വിക്കിപീഡിയയിലെ ഉപയോക്തൃനാമത്തിലെ മാറ്റങ്ങൾ നോക്കാൻ യഥാർത്ഥത്തിൽ എഴുത്തുകാർക്ക് അവസരം ലഭിച്ചു വിക്കിപീഡിയയിൽ പോലും ആളുകൾ യഥാർത്ഥത്തിൽ പരാമർശിച്ചതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹാൻഡിൽ മാറ്റാൻ കഴിയും തീർച്ചയായും ഈ ജോലി ഇതിനർത്ഥം ഇത്തരത്തിലുള്ള എല്ലാ ജോലികൾക്കും ഒരു പരിമിതി ഉണ്ടായിരിക്കണം എന്നാണ് അതിനാൽ ഇവിടെ ട്വിറ്റർ API നിയന്ത്രണങ്ങൾ കാരണം പതിനായിരം ഉപയോക്താക്കളുടെ ഡാറ്റ മാത്രമേ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തുള്ള പതിനഞ്ചു മിനിറ്റ് സ്കാനിംഗ് അത് പഠനത്തിനുള്ള ഏറ്റവും വലിയ പരിമിതികളിൽ ഒന്നാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ജോലി എടുക്കാൻ കഴിയുന്ന നിരവധി ദിശകളുണ്ട് ഉപയോക്താക്കൾക്ക് എടുക്കാവുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് എടുക്കാവുന്ന ഒരു ദിശ യഥാർത്ഥത്തിൽ വിപുലീകരിക്കുന്നു വിശകലനത്തിന്റെ ഡാറ്റ സെറ്റ് വർദ്ധിപ്പിക്കുന്നു വളരെ വലിയ ഡാറ്റാ സെറ്റുകൾക്കിടയിൽ ഇത് പഠിക്കുന്നത് ഒരുപക്ഷേ ഒരു വലിയ പ്രേക്ഷകർക്കും സാമാന്യവൽക്കരിക്കാവുന്ന കൂടുതൽ ഫലങ്ങൾ നൽകും അതോടെ ഞാൻ ഈ പേപ്പർ നിർത്തും ഞാൻ നിങ്ങളെ ഉടൻ കാണും